നമുക്ക് ഇപ്പോൾ കപ്പാസിറ്റർ C2ലേക്ക് വരാം2 കപ്പാസിറ്റർ C2 വിന്റെ കൻസ്ട്രെയിന്റ് കണക്കാക്കുമ്പോൾ ഇൻഡിപെൻഡൻറ് സോഴ്സ് തീർച്ചയായും പൂജ്യമായി സജ്ജീകരിച്ചിരിക്കണം അതിനാൽ ഇത് ഒരു ഷോർട്ട് സർക്യൂട്ട് ആയി മാറുന്നു ഇത് ഒരു വോൾട്ടേജ് സോഴ്സ് ആണ് അത് പൂജ്യമാണ് കപ്പാസിറ്റർ C1 ശരിയായി തിരഞ്ഞെടുത്താൽ അതും ഒരു ഷോർട്ട് സർക്യൂട്ട് ആകും ഇപ്പോൾ ഈ സർക്യൂട്ടിന് ചുറ്റുമൊരു ബോക്സ് വരയ്ക്കാം C2 നു കുറുകേ ദൃശ്യമാകുന്ന റെസിസ്റ്റൻസ് എന്താണ് കണക്ഷൻ ഇതുപോലെയാണെന്ന് നിങ്ങൾക്ക് കാണാം നമുക്ക് ഈ സർക്യൂട്ടും അതിന്റെ ഔട്ട്പുട്ട് ടെർമിനലുകളും ഉണ്ട് C2 ഇവിടെ ബന്ധിപ്പിച്ചിരിക്കുന്നു RL ഇവിടെയുണ്ട് ഇതാണ് ഗ്രൌണ്ട് അതുകൊണ്ട് ഈ രണ്ടു ടെർമിനലുകൾക്കിടയിൽ ഇവ രണ്ടിനും ഇടയിൽ നിങ്ങൾക്ക് ഒരു പ്രതിരോധം കാണാനാകും കാരണം ഇതൊരു ലീനിയർ സർക്യൂട്ടാണ് നിങ്ങൾക്ക് റെസിസ്റ്റൻസ് ആകാൻ പോകുന്ന ഒന്ന് കാണാൻ കഴിയണം കൂടാതെ അത് റെസിസ്റ്റൻസ് Rout ആയിരിക്കണം അതായത് ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് അതിനാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഈ സർക്യൂട്ടിന്റെ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കണക്കുകൂട്ടുകയാണ് C2 ഉറപ്പാക്കുക ടോട്ടൽ റെസിസ്റ്റൻസിനേക്കാൾ ഇതിന്റെ റിയാക്റ്റൻസ് വളരെ കുറവാണെന്ന് ഉറപ്പുവരുത്തണം അതായത്1 0C2 ടോട്ടൽ റെസിസ്റ്റൻസ് ആയ RL Rout നേക്കാൾ വളരെ കുറവായിരിക്കണം അല്ലെങ്കിൽ C2 എന്നത് 1 0RL Routനേക്കാൾ വളരെ വലുതായിരിക്കണം അതുകൊണ്ട് Rout ന്റെ മൂല്യം എന്താണ് വീണ്ടും കണക്കുകൂട്ടാൻ വളരെ എളുപ്പമാണ് നമുക്കിവിടെ Rs ഉണ്ട് ഗേറ്റിനും MOS ട്രാൻസിസ്റ്ററിന്റെ ഡ്രെയിനിനുമിടയിൽ RG ഉം ഉണ്ട് കൺട്രോൾ സോഴ്സ് gmVGS ആണ് ഇത് VGS ഇതാണ് സോഴ്സ് ടെർമിനൽ ഡ്രെയിൻ നോഡും ഗ്രൌണ്ടും തമ്മിലുള്ള റേസിസ്റ്റൻസ് കണ്ടെത്താൻ നമ്മൾ ശ്രമിക്കുന്നു നമ്മൾ എന്തുചെയ്യും പതിവുപോലെ നമുക്ക് ഒരു വോൾട്ടേജ് സോഴ്സ് VTEST പ്രയോഗിക്കാം നിലവിലെ ITEST കണ്ടെത്തുക അതിനുശേഷം VTESTITEST എന്ന അനുപാതം എടുക്കുക ഇത് ചെയ്യാൻ വീണ്ടും നിരവധി മാർഗങ്ങളുണ്ട് സർക്യൂട്ട് അനാലിസിസിലെ ഒരു എക്സസൈസ് എന്ന നിലയിൽ ഇത് സ്വയം പരീക്ഷിക്കാൻ ഞാൻ നിർദ്ദേശിക്കുന്നു ഇപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും സാധാരണ കിർചോഫസ് ലോ Kirchhoff's law എഴുതി അത് കണ്ടെത്താനാകും ഞാൻ അതിൽ നിന്ന് അൽപം വ്യത്യസ്തമാണ് ചെയ്യുന്നത് അടിസ്ഥാനപരമായി ഈ വോൾട്ടേജ് സോഴ്സ് ഈ റെസിസ്റ്റീവ് ഡിവൈഡറിനു കുറുകേ ദൃശ്യമാകുന്നു നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ ഈ നോഡിൽ കിർചോഫിന്റെ നിലവിലെ നിയമം എഴുതാം ഈ നോഡിൽ ഉത്തരം കിട്ടും അതിനാൽ ഞാൻ ഇതിൽ നിന്നു അല്പം വ്യത്യസ്തമായി ചെയ്യാം ഈ VTEST ഈ റെസിസ്റ്റീവ് ഡിവൈഡറിലുടനീളം പ്രയോഗിക്കുന്നു ഗേറ്റ് ടെർമിനലിൽ നിന്നു കറൻറ് ഒഴുകുന്നില്ല അതിനാൽ ഇവിടെ ഈ VGS റെസിസ്റ്റീവ് ഡിവൈഡർ റേഷ്യോ തവണ VTEST ആണ് VGS Rs RG RsVTEST ഈ ബ്രാഞ്ചിൽ ഒഴുകുന്ന കറന്റ് VTEST RG Rs ആണ് ഇവിടെ ഒഴുകുന്ന കറൻറ് gmVGS ആണ് അത് gm തവണ ഈ മുഴുവൻ കാര്യങ്ങളുമാണ് അതിനാൽ മൊത്തം കറൻറ് ITEST ഇത് പ്ലസ് ഇതാണ് അതിനാൽ ITESTVTESTRG Rs gmVTEST Rs RG Rs ആണെന്ന് നമ്മൾ കണ്ടെത്തി ഈ റേഷ്യോ പരിഹരിച്ച് കഴിഞ്ഞാൽ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് RG RsgmRs1ആണെന്ന് നമുക്ക് മനസിലാകും നിങ്ങൾ ഈ കണക്കുകൂട്ടലുകൾ നടത്തുമ്പോൾ ചിലതരം യുക്തിപരിശോധനകൾ നടത്തുന്നത് എല്ലായ്പ്പോഴും നല്ലതാണ് അതായത് ചില ബുദ്ധിമുട്ടുള്ള കേസുകൾ വിലയിരുത്തിക്കൊണ്ട് ഉത്തരം ശരിയാണോ അല്ലയോ എന്നു നിങ്ങൾക്ക് കാണാൻ കഴിയും ഈ സാഹചര്യത്തിൽ gm പൂജ്യമായിട്ടുള്ള ഒരു സാഹചര്യം എടുക്കുക അതായത് അവിടെ ട്രാൻസിസ്റ്ററേയില്ല നമുക്ക് റെസിസ്റ്ററുകൾ മാത്രമേയുള്ളൂ അപ്പോൾ എന്ത് സംഭവിക്കണം ഈ വൈദ്യുതി സോഴ്സ് അപ്രത്യക്ഷമാവുകയും ഈ രണ്ട് ടെർമിനലുകൾക്കിടയിൽ നിങ്ങൾക്ക് RG യുടെയും Rs യും സീരീസ് കോമ്പിനേഷൻ ആണ് കാണാൻ കഴിയുക ഇപ്പോൾ ഈ പദപ്രയോഗത്തിൽ നിങ്ങൾ gm പൂജ്യമായി സജ്ജമാക്കുകയാണെങ്കിൽ ഉത്തരം RG Rsആണ് അതിനാൽ ഇത് യുക്തിപരിശോധനകളെ തൃപ്തിപ്പെടുത്തുന്നു ഈ കാര്യങ്ങൾ വളരെ പ്രധാനമാണ് ഒന്നാമതായി ധാരാളം ബീജഗണിതങ്ങൾക്ക് ശേഷം നിങ്ങൾക്ക് ലഭിച്ച ഫലം ശരിയാണോയെന്ന് പരിശോധിക്കുന്നതും സർക്യൂട്ടിനെക്കുറിച്ച് ചില അവബോധം നേടുന്നതും അതിനാൽ നിങ്ങൾ ഔട്ട്പുട്ട് റെസിസ്റ്റൻസ് കണക്കാക്കിയാൽ നിങ്ങൾ ചെയ്യേണ്ടത് C2 ന്റെ കൺസ്ട്രെയിന്റ് കണ്ടുപിടിക്കുകയാണ് C2 അതിനേക്കാൾ വലുതായിരിക്കണം അതിനാൽ അത് ഡ്രെയിൻ ഫീഡ്ബാക്ക് ഉപയോഗിച്ച് കോമൺ സോഴ്സ് ആംപ്ലിഫയറിലുള്ള നമ്മുടെ പരുപാടികൾ പൂർത്തിയാക്കുന്നു RG വളരെ വലുതാണെങ്കിൽ ഒരു സാധാരണ ആംപ്ലിഫയറായി ഇത് പ്രവർത്തിക്കുന്നു അത് എന്താണെന്ന് നമ്മൾ കണക്കാക്കിയിട്ടുണ്ട് കൂടാതെ ac കപ്ലിംഗ് കപ്പാസിറ്ററുകൾക്കുള്ള കൺസ്ട്രെയിൻസും നമ്മൾ കണക്കാക്കിയിട്ടുണ്ട് കപ്പാസിറ്റർ C2 ലെ കൺസ്ട്രെയിൻസിനെ പറ്റി നമ്മൾ ഇതിനകം ചർച്ചചെയ്തു അതിനാൽ ഇത് ഒരു ഷോർട്ട് സർക്യൂട്ടായി ദൃശ്യമാകുന്നു അതാണ് ഈ കണ്ടിഷൻ ഇപ്പോൾ ഫിക്സ്ഡ് ഗേറ്റ് സോഴ്സ് ബയസ് ഉള്ള ഒരു ഒറിജിനൽ കോമൺ സോഴ്സ് ആംപ്ലിഫയറിനെകുറിച്ച് നമ്മൾ ചർച്ച ചെയ്തതു പോലെ കപ്പാസിറ്റർ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ആംപ്ലിഫയറിന്റെ ഗെയിൻ തുല്യമാണെന്ന് ഈ കണ്ടിഷൻ ഉറപ്പാക്കുന്നു അതാണ് കപ്പാസിറ്റർ ഷോട്ട് ആക്കുന്നതിന്റെ അർത്ഥം C2 ഈ കൺസ്ട്രെയിൻറ് തൃപ്തിപ്പെടുത്തുന്നുവെങ്കിൽ നിങ്ങൾക്ക് ഒരു സ്മോൾ സിഗ്നൽ ഗെയിൻ ലഭിക്കും ഈ ഗെയിൻ C2 ശെരിക്കും ഷോട്ട് സർക്യൂട്ട് ആകുമ്പോഴോ വളരെ വലിയ കപ്പാസിറ്റർ ആകുമ്പോഴോ കിട്ടുന്നതിനോട് വളരെ അടുത്തായിരിക്കും കപ്പാസിറ്റർ C2 ന്റെ സാധ്യമായ മറ്റൊരു കൺസ്ട്രെയിൻറിനെ കുറിച്ചും നമ്മൾ ചർച്ച ചെയ്തു ഒരുപാട് തവണ ഈ വോൾട്ടേജ് VDS V0നോട് തുല്യമായി നമുക്ക് വേണം ഇപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഈ കണ്ടിഷൻ തൃപ്തികരമായാൽ ഡ്രെയിൻ സോഴ്സ് വോൾട്ടേജിലുടനീളമുള്ള VDS സിഗ്നൽ ഔട്ട്പുട്ട് വോൾട്ടേജ് V0നേക്കാൾ വളരെ കൂടുതലായിരിക്കാൻ കഴിയും അതിനാൽ നമുക്ക് VDS V0നു തുല്യമായി കിട്ടില്ല ആ കേസിൽ നമ്മൾ നേരത്തെ ചർച്ചചെയ്തപോലെ ഈ കൺസ്ട്രെയിന്റ് C2 എന്നത് 1 0RL നേക്കാൾ വളരെ വലുതായിരിക്കണം അതിനാൽ പലതവണ നമ്മൾ ഈ കൺസ്ട്രെയിന്റ് ഉപയോഗിക്കുന്നു മുമ്പത്തെപ്പോലെ നിങ്ങൾ ഇത് സാറ്റിസ്ഫൈ ചെയ്യിക്കുകയാണെങ്കിൽ അതും തന്നത്താൻ സാറ്റിസ്ഫൈ ആകും ഇതാണ് സ്ട്രോങർ കണ്ടിഷൻ